വൈദ്യുതകാന്തിക സിദ്ധാന്തത്തിൻറെ ആമുഖത്തെ കുറിച്ചുള്ള അവസാന പ്രഭാഷണമാണിത് ഇലക്ട്രോസ്റ്റാറ്റിക്സിനെക്കുറിച്ചും മാഗ്നെറ്റോസ്റ്റാറ്റിക്സിനെക്കുറിച്ചും നിങ്ങൾ ഈ കോഴ്സിൽ പഠിച്ചു പിന്നീട് ഞങ്ങൾ ഡൈനാമിക്സ് ഭാഗത്തെത്തി സമയത്തിനനുസരിച്ച് മാറുമ്പോൾ വൈദ്യുത കാന്തികക്ഷേത്രങ്ങൾ എങ്ങനെ പരസ്പരം ഉയർത്താമെന്ന് നിങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഇതുവരെ പഠിച്ചത് അവ എങ്ങനെ പരസ്പരം നിലനിർത്തുന്നുവെന്നും അസ്വസ്ഥതകൾ വികിരണം സൃഷ്ടിക്കുന്നതും പ്രചരിപ്പിക്കുന്നതിനെയും വികിരണം എന്ന് വിളിക്കുന്നു ഈ വികിരണം എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് കാണുന്നത് വരെ e m സിദ്ധാന്തത്തെക്കുറിച്ചുള്ള ഒരു കോഴ്സും പൂർത്തിയാകില്ല അതിനാൽ ഈ അന്തിമ പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങൾക്ക് വൈദ്യുതകാന്തിക വികിരണം എങ്ങനെ ഉണ്ടാകുന്നു എന്നതിന്റെ ഗുണപരമായ വിവരണം നൽകാൻ പോകുന്നു നിങ്ങളുടെ പതിനൊന്നാം പന്ത്രണ്ടാം ക്ലാസ്സിൽ പ്രത്യേകിച്ചും ബോറിന്റെ മോഡലുമായി Bohr's model ബന്ധപ്പെട്ട് ഏതെങ്കിലും ത്വരിതപ്പെടുത്തുന്ന ചാർജ് പ്രസരിക്കുന്നതായി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അതിനാൽ ബോറിന്റെ മാതൃകയിൽ ഭ്രമണപഥത്തിൽ ചലിക്കുന്ന ചാർജ് വികിരണം ചെയ്താൽ ഒരു ആറ്റം അസ്ഥിരമായിരിക്കും കാരണം അത് ത്വരിതപ്പെടുത്തുന്നു അതിനാൽ ഈ പ്രഭാഷണത്തിൽ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ചാർജ് ത്വരിതപ്പെടുത്തൽ എങ്ങനെയാണ് വികിരണത്തിലേക്ക് നയിക്കുന്നത് എന്നതാണ് ആരംഭിക്കുന്നതിന് ത്വരിതപ്പെടുത്താത്ത ചാർജ് എന്തുകൊണ്ട് വികിരണം ചെയ്യരുത് എന്ന് നോക്കാം അതിനാൽ ഒരു ചാർജ് q പോയിന്റ് ചാർജ് q സ്ഥിരമായ വേഗത v ഉപയോഗിച്ച് ചലിക്കുന്നതായി നമുക്ക് നോക്കാം അത്തരത്തിലുള്ളതാണ് ഞാൻ ഈ പ്രഭാഷണത്തെ v യുടെ വ്യാപ്തിയെ പ്രകാശത്തിന്റെ വേഗതയായ c യേക്കാൾ വളരെ കുറവാണ് എന്ന് കണക്കാക്കി ഇതിൽ കേന്ദ്രീകരിക്കാൻ പോകുന്നു മുമ്പത്തെ ഒരു പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ അസൈൻമെന്റുകളിൽ ചലിക്കുന്ന ചാർജ് അതിന് ചുറ്റും ഒരു കാന്തികക്ഷേത്രം സൃഷ്ടിക്കുന്നത് നിങ്ങൾ കണ്ടു അതിനാൽ ഈ ചാർജ് q പോസിറ്റീവ് ആയി ഞങ്ങൾ കണക്കാക്കുന്നു അത് ശരിയായ ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് കരുതുക അതിന് മുകളിൽ ഒരു B ഫീൽഡ് ഉണ്ടാകും അത് താഴേക്ക് പോകുന്നു നിങ്ങൾ പോകുമ്പോൾ ഫീൽഡ് മാഗ്നിറ്റ്യൂഡ് ചെറുതായിത്തീരും ഇതൊന്നും കുറവല്ല ഏകദേശ കണക്കനുസരിച്ച് എനിക്ക് e ഫീൽഡ് റേഡിയൽ ഔട്ട് ആകാൻ കഴിയും ഇത് v മാഗ്നിറ്റ്യൂഡിന് c യേക്കാൾ വളരെ കുറവാണെങ്കിൽ അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് പോയിന്റിംഗ് വെക്റ്റർ s ആണ് അത് പവർ എടുത്തുകളയാത്തതിനാൽ വികിരണം നടത്തുന്നില്ല ഇത് കാണുന്നതിന് വളരെ അപരിഷ്കൃതമായ മറ്റൊരു മാർഗമുണ്ട് അതാണ് ഇത് ഈ ചാർജ് വേഗത സ്ഥിരമായ വേഗത v എന്നിവയുമായി നീങ്ങുന്നുവെങ്കിൽ നമുക്ക് ഈ ചാർജിലേക്ക് ഒരു ഫ്രെയിം അറ്റാച്ചുചെയ്യാം ചുവന്ന വരയായ x y z എന്ന രീതിയിൽ ഒരു ഫ്രെയിം നിർമ്മിക്കാം അതിനാൽ ഈ ഫ്രെയിം നിരന്തരമായ വേഗത v യുമായി നീങ്ങുന്നു ഇവിടെ എന്റെ ഗ്രൌണ്ട് ഫ്രെയിം ഉണ്ട് അതിനാൽ ഈ ഗ്രൌണ്ട് ഫ്രെയിമിനെ സംബന്ധിച്ചിടത്തോളം ഫ്രെയിം വേഗതയുമായി നീങ്ങുന്നു എന്നിരുന്നാലും ഈ ചുവന്ന ഫ്രെയിമിൽ ഫ്രെയിം ചലിക്കുന്ന സമയത്ത് ഒരു ചാർജ് വിശ്രമത്തിലാണ് അതിനാൽ ഈ ചാർജ് കാരണം വൈദ്യുത മണ്ഡലം വികിരണമായി പുറത്തേക്ക് പോകും കാന്തികക്ഷേത്രമില്ല അതിനാൽ വികിരണവുമില്ല അതിനാൽ ചലിക്കുന്ന ഫ്രെയിമിൽ ഇത് വികിരണങ്ങളൊന്നും എഴുതരുത് എന്നിരുന്നാലും ഈ ഫ്രെയിം സ്ഥിരമായ വേഗതയോടെ ഗ്രൌണ്ട് ഫ്രെയിമിനോട് അനുബന്ധിച്ച് നീങ്ങുന്നു അതിനാൽ ഇത് ഒരു നിഷ്ക്രിയ ഫ്രെയിമാണ് രണ്ട് ഫ്രെയിമിലെ ഭൌതികശാസ്ത്രവും തുല്യമായിരിക്കണം അതിനാൽ ഇത് ഉണ്ടെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ചലിക്കുന്ന ഫ്രെയിമിൽ വികിരണങ്ങളൊന്നുമില്ല ഗ്രൌണ്ട് ഫ്രെയിമിലും വികിരണം ഇല്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അങ്ങനെ നിരന്തരമായ വേഗതയിൽ ചാർജ്ജ് ചലിക്കുന്നത് വികിരണം ചെയ്യുന്നില്ല ത്വരിതപ്പെടുത്തുന്ന ചാർജ് വികിരണം എങ്ങനെ നൽകുമെന്ന് ഇപ്പോൾ നമുക്ക് കാണിക്കാം അതിനാൽ ഇപ്പോൾ നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ത്വരിതപ്പെടുത്തുന്ന ചാർജ് വികിരണം നൽകുന്നു നിങ്ങൾ ഭൌതികശാസ്ത്രം അല്ലെങ്കിൽ വൈദ്യുതകാന്തിക സിദ്ധാന്തത്തിൽ ഒരു നൂതന കോഴ്സ് ചെയ്യുന്നത് തുടരുകയാണെങ്കിൽ അതിലൂടെയും ഗണിതശാസ്ത്രപരമായ കർശനമായ ഡെറിവേഷൻ നിങ്ങൾ കാണും വിവരണം വളരെ ഗുണപരമായിരിക്കും അതിനാൽ ഞാൻ വികിരണം ഉപയോഗിക്കാൻ പോകുന്ന പ്രധാന സവിശേഷതകളെക്കുറിച്ച് നമുക്ക് ഇത് മനസ്സിലാക്കാം ഒരു വികിരണത്തിൽ വൈദ്യുത മണ്ഡലം E കാന്തികക്ഷേത്രം B എന്നിവ പ്രചാരണ ദിശയിലേക്ക് ലംബമാണ് കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളിൽ ഞങ്ങൾ അത് കണ്ടു നമ്പർ രണ്ട് പോയിന്റ് ചാർജ് വികിരണം ഉണ്ടെങ്കിൽ പവർ p ഉപയോഗിച്ച് കരുതുക നിങ്ങൾ കൂടുതൽ ദൂരം പോകുമ്പോൾ ഒരേ പവർ വലുതും കൂടുതൽ കൂടുതൽ പ്രദേശത്തേക്ക് പോകാൻ തുടങ്ങുന്നു കൂടാതെ യൂണിറ്റ് ഏരിയയ്ക്ക് വൈദ്യുതി ഒന്നുമല്ല e സ്ക്വയറിന് ആനുപാതികമായ പോയിന്റിംഗ് വെക്റ്റർ അതിനാൽ പോയിൻറിംഗ് വെക്റ്റർ അല്ലെങ്കിൽ യൂണിറ്റ് ഏരിയയിലെ പവർ വികിരണത്തിന്റെ ഒരു പോയിന്റ് സോഴ്സ് ആയി മാറുന്നു ഇത് 1 ഓവർ r സ്ക്വയറിന് ആനുപാതികമാണ് ഇവിടെ r എന്നത് പോയിന്റ് സോഴ്സ് ൽ നിന്നുള്ള ദൂരം E ഫീൽഡ് 1 ഓവർ r ന് ആനുപാതികമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു നമുക്ക് ചിത്രപരമായി നോക്കാം എനിക്ക് ഒരു പോയിന്റിന്റെ സോഴ്സ് ഉണ്ടെങ്കിൽ അത് ഇവിടെ പച്ച നിറം ഉപയോഗിച്ച് നിർമ്മിക്കാം തുടർന്ന് അകലെ r ദൂരത്തു വികിരണം ഈ വഴിക്ക് പോകുകയാണെങ്കിൽ എനിക്ക് ഒരു E ഫീൽഡ് ഉണ്ടായിരിക്കും ഒന്നുകിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ പോകുന്നു അല്ലെങ്കിൽ കടലാസിന്റെ അകത്തേക്ക് പോകുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് പ്രചാരണ ദിശയിലേക്ക് ലംബമാണ് കൂടാതെ e 1 ഓവർ r ന് ആനുപാതികമായിരിക്കും ത്വരിതപ്പെടുത്തുന്ന ചാർജ് എനിക്ക് ഒരു പ്രചാരണ അസ്വസ്ഥത നൽകുന്നുവെന്ന് കാണിക്കാൻ കഴിയുമെങ്കിൽ അത് E ഫീൽഡ് 1 ഓവർ r ആണ് ഒപ്പം പ്രചാരണത്തിന്റെ ലംബ ദിശയുമാണ് ഞാൻ അവർക്ക് വികിരണം കാണിച്ചു അതിനാൽ നമുക്ക് ഇത് കാണാം ഈ ചാർജ് വിശ്രമത്തിലാണെന്ന് കരുതുക ഞാൻ വിശ്രമവേളയിൽ ഒരു ചാർജ് എടുക്കുന്നു ഇതിന് ഒരു വൈദ്യുത മണ്ഡലമുണ്ട് ഞാൻ മൂന്നോ നാലോ വരി ഉണ്ടാക്കും ഇതുപോലുള്ള വരികൾ ഈ E ഫീൽഡ് q ഓവർ 4 pi എപ്സിലോൺ 0 r സ്ക്വാർ ഇവിടെ r ഒരു ദൂരമാണ് ഈ ഫീൽഡ് റേഡിയൽ ഔട്ട് ആണ് ഇപ്പോൾ കരുതുക ഇത് ആദ്യ ഘട്ടമാണ് ഘട്ടം രണ്ട് ഈ ചാർജിന് tau എന്ന വളരെ കുറഞ്ഞ ദൈർഘ്യമുള്ള ഒരു ഇമ്പ്പ്ളസ് നൽകുന്നു അതിനാൽ ഇത് ഒരു വേഗത v നേടുന്നു കൂടാതെ ഞങ്ങൾ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു വേഗതയുടെ വ്യാപ്തി പ്രകാശവേഗതയിലും വളരെ കുറവാണെങ്കിൽ എന്ന അവസ്ഥയിലാണ് അതിനാൽ ഈ ചാർജ് ഇപ്പോൾ വേഗത v ഗതി v എന്നിവയ്ക്കൊപ്പം നീങ്ങുന്നു tau എന്ന വളരെ കുറഞ്ഞ ദൈർഘ്യമുള്ള ഒരു ഇമ്പ്പ്ളസ് നൽകുന്നു ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനാൽ ഈ ചാർജ് തുടക്കത്തിൽ വിശ്രമത്തിലായിരുന്നു ഈ ഫീൽഡ് ഇതുപോലെ പോകുന്നു ഞാൻ ഇത് റേഡിയൽ ഔട്ട് ആക്കുന്നു ഇതിന് ഒരു കിക്ക് നൽകി അതിനാൽ കാലക്രമേണ അത് ഇവിടെ എത്തുന്നു കാര്യങ്ങൾ അതിശയോക്തിപരമല്ല അത് ഈ v t ദൂരത്തിൽ എത്തുന്നു ഇപ്പോൾ ഇതേ t സമയത്ത് അതേ സ്ഥാനത്തുള്ള ചാർജുകളും ഫീൽഡ് മാറിയിട്ടുണ്ട് കൂടാതെ v വളരെ ചെറുതാണെങ്കിലും ഈ ചാർജ് സ്ഥാനത്തെക്കുറിച്ച് ഫീൽഡ് റേഡിയൽ ആകാൻ പോകുന്നു ചാർജ്ജ് വിശ്രമത്തിലായിരിക്കുമ്പോൾ ഞാൻ വരുത്തിയ അതേ വരികൾ വീണ്ടും ഉണ്ടാക്കാം എന്നിരുന്നാലും ഇത് സ്പേസ് മുഴുവൻ റേഡിയൽ ആകാൻ കഴിയില്ല അല്ലെങ്കിൽ സ്പേസ് മുഴുവൻ ഈ ചുവന്ന ഫീൽഡ് ആകാൻ കഴിയില്ല കാരണം ഈ പ്രചരണം പ്രകാശത്തിന്റെ പരിമിത വേഗതയാണ് അതിനാൽ ഇത് വീണ്ടും റേഡിയൽ ആകും ചുവന്ന ഫീൽഡ് c t ദൂരം വരെ മാത്രമേ വ്യാപിക്കുകയുള്ളൂ അതിനാൽ ഈ ദൂരം c t ആണ് അതിനുശേഷം കുറച്ച് സമയത്തേക്ക് ഫീൽഡ് എന്താണെന്ന് ഇപ്പോൾ എനിക്കറിയില്ല പക്ഷേ തീർച്ചയായും റേഡിയൽ ആകേണ്ടതില്ല കാരണം വളരെ ലളിതമാണ് ആ ചെറിയ സമയത്തിൽ ചാർജ് ത്വരിതപ്പെടുത്തുന്നു അതിനാൽ എനിക്ക് യഥാർത്ഥത്തിൽ ഒരു നിഷ്ക്രിയ ഫ്രെയിം അറ്റാച്ചുചെയ്യാൻ കഴിയില്ല എനിക്ക് അതിൽ നിഷ്ക്രിയ ഫ്രെയിമിൽ അറ്റാച്ചുചെയ്യാൻ കഴിയുമെങ്കിൽ ഫീൽഡ് ഉള്ള ഫീൽഡ് റൌണ്ട് ഫ്രെയിമിൽ ഉണ്ടെന്ന് ഞാൻ കാണും പക്ഷേ എനിക്കറിയില്ല എനിക്കറിയാം കാരണം അത് ഒരു വേഗതയിൽ ചലിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും അറിയാം ഫീൽഡ് റേഡിയൽ ആയ ചാർജിലേക്ക് എനിക്ക് ഒരു ഫ്രെയിം അറ്റാച്ചുചെയ്യാൻ കഴിയും വേഗത ചെറുതായതിനാൽ അത് ഒരു ഗ്രൌണ്ട് ഫ്രെയിമിലും റേഡിയലായി തുടരുന്നു ഫീൽഡിന്റെ c tau വിന് പുറത്ത് വീണ്ടും റേഡിയൽ ഉണ്ടെന്ന് എനിക്കറിയാം എനിക്കറിയാത്ത പച്ച നിറത്തിൽ ഞാൻ കാണിക്കുന്ന രണ്ട് പ്രദേശങ്ങൾക്കിടയിലും ഇത് ഫീൽഡിന്റെ സ്വഭാവം അതിനാൽ ഇപ്പോൾ ഈ ചിത്രം വീണ്ടും നിർമ്മിക്കാം അതിനാൽ എനിക്ക് ഈ കറുപ്പ് നിറo റെസ്റ്റ് ചാർജിൽ ഉണ്ട് ഒപ്പം c t വരെ അകലവും അതിനപ്പുറവും അതിനുശേഷം ഫീൽഡ് എല്ലായിടത്തും റേഡിയൽ ആണ് നമുക്ക് ഈ വശത്തും ഇത് ചെയ്യാം അതിനാൽ ഞാൻ ഈ സർക്കിൾ നിർമ്മിക്കും ഇതിന് ചുറ്റുമുള്ള ഒരു സർക്കിൾ ഇതുപോലുള്ള മറ്റൊരു വൃത്തമുണ്ട് ഫീൽഡിന്റെ സർക്കിളിന് പുറത്ത് റേഡിയൽ ആണ് ഈ വശത്തും രണ്ട് സർക്കിളുകൾ തമ്മിലുള്ള ഈ ദൂരം c times tau ആണ് ഞാൻ ഇമ്പ്പ്ളസ് നൽകുന്ന ചെറിയ കാലയളവ് t സമയത്തിനു ശേഷം ചാർജ് കണിക ഇവിടെ വന്നിരിക്കുന്നു ഈ ദൂരം v t ആണ് ഇപ്പോൾ ഈ ഫീൽഡ് സമൂലമായി ഇതിൽ നിന്ന് പുറത്താകും എന്നാൽ ഈ ആന്തരിക വൃത്തം വരെ മാത്രം കാരണം പുറത്തായ വിവരങ്ങൾ ഈ ഭാഗത്തെത്തുന്നു മറ്റെന്തെങ്കിലും സംഭവിക്കുന്നു ഇപ്പോൾ മാക്സ്വെൽ ന്റെ സമവാക്യത്തിൽ ഉപരിതലത്തിൽ നിന്ന് സംയോജിത E യുടെ വ്യതിചലനം q ഓവർ എപ്സിലോൺ 0 ന് തുല്യമാണെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു ഇത് ഗോസ്സ് ന്റെ നിയമമാണ് ഇത് ഏത് ഫ്രെയിമിലാണെങ്കിലും ഞാൻ എവിടെയാണ് നിലനിൽക്കുന്നത് അതിനാൽ വരികളുടെ എണ്ണം ചാർജിനെ പ്രതിനിധീകരിക്കുന്ന വരികളുടെ എണ്ണം ഞാൻ എടുക്കുകയാണെങ്കിൽ അകത്തും പുറത്തും സമാനമായിരിക്കും അതിനാൽ അവർക്ക് അവിടെ ഉണ്ടായിരിക്കാനുള്ള ഏക മാർഗ്ഗം ഈ പച്ച ഫീൽഡ് വഴി ഞാൻ ഇവിടെ ബന്ധിപ്പിക്കുന്നു ഇവിടെ പച്ച ഫീൽഡ് ഇവിടെ പച്ച ഫീൽഡ്ഈ വശത്ത് പച്ച ഫീൽഡ് അതിനാൽ ഫീൽഡ് ലൈനുകൾ ഇതുപോലെ കാണുന്നു ഞാൻ അവയെ ഇവിടെ ഒരു നിറത്തിൽ വ്യക്തമായി നിർമ്മിക്കട്ടെ പുറത്തു പോകുന്നു പുറത്തു പോകുന്നു ഇതുപോലെയാണ് ഇവിടെ വരുന്നത് അതുപോലെ ഇവിടെ അത് മുകളിലേക്ക് പോകുന്നു ഇതുപോലെ പുറത്തുപോയി പുറത്തു പോകുന്നു ഇത് ഫീൽഡ് ലൈൻ ഘടനയാണെന്ന് നിങ്ങൾ കാണുന്നു ഈ വശത്തെ ഫീൽഡ് ഇതുപോലെയാണ് വീണ്ടും ഞാൻ അതിനുള്ളിലെ ഫീൽഡ് ലേക്ക് നോക്കിയപ്പോൾ റേഡിയൽ ആയിരുന്നു നിരന്തരമായ വേഗതയിൽ ചലിക്കുന്ന ചാർജിൽ ഇരിക്കുമ്പോൾ ഫീൽഡ് ആ ഫ്രെയിമിൽ ഞാൻ കണ്ടതെല്ലാം ചെറിയ വേഗതയ്ക്ക് എനിക്ക് പറയാൻ കഴിയും ഗ്രൌണ്ട് ഫ്രെയിമിലും ഫീൽഡ് സമാനമാണ് അതിനിടയിൽ എനിക്കറിയില്ല എനിക്കറിയാവുന്ന ഒരേയൊരു കാര്യം വരികളുടെ എണ്ണം പുറത്ത് അല്ലെങ്കിൽ അകത്ത് സമാനമായിരിക്കണം അതിനാൽ ഇതാണ് നീല വരയാണ് വഴി കാണിക്കുന്നത് അവ എനിക്ക് കണക്റ്റുചെയ്യാനുള്ള ഏക മാർഗ്ഗം നമുക്ക് അവയെ ബന്ധിപ്പിക്കാൻ ഏറ്റവും ലളിതമായ മാർഗം മാത്രം ഞാൻ അവരെ ഇതുപോലെ ബന്ധിപ്പിച്ചാൽ രസകരമായ എന്തെങ്കിലും സംഭവിക്കുന്നു ഇവിടെ രണ്ട് സർക്കിളുകൾക്കിടയിലുള്ള ഈ പ്രദേശത്ത് നീല രേഖയ്ക്ക് റേഡിയൽ ദിശയിലേക്ക് ലംബമായി ഒരു ഘടകമുണ്ടെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ത്വരിതപ്പെടുത്തൽ ഇമ്പ്പ്ളസ് നൽകിയതുപോലെ വീതിc tau ഉള്ള ഈ ചെറിയ പ്രദേശം c വേഗത ഉപയോഗിച്ച് ഇത് പ്രചരിപ്പിക്കാൻ തുടങ്ങി അതിനാൽ ഈ പ്രദേശം നിലവിലുണ്ട് ചാർജ് ത്വരിതപ്പെടുത്തുമ്പോൾ റേഡിയൽ ദിശയ്ക്ക് ലംബമായി അല്ലെങ്കിൽ പ്രചാരണത്തിന്റെ ലംബ ദിശയിലുള്ള ഫീൽഡുള്ള വലുപ്പത്തിന് അനുസരിച്ച് അതിനാൽ ചാർജ് ത്വരിതപ്പെടുത്തുന്ന ആ സമയത്തു ഒരു ഫീൽഡ് ഉണ്ടെന്ന് ഞങ്ങൾ സ്ഥാപിച്ചു അത് പ്രചാരണ ദിശയ്ക്ക് ലംബമാണ് അടുത്തതായി ഇത് 1 ഓവർ r ആണെന്ന് കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ വികിരണം ചെയ്ത പവർ കണക്കാക്കുക